NPTEL ഓൺലൈൻ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിന് കീഴിലുള്ള ബയോ റിയാക്ടറുകളെക്കുറിച്ചുള്ള കോഴ്സിലെ പ്രഭാഷണം 9 ലേക്ക് സ്വാഗതം പ്രഭാഷണ 8 ൽ നമ്മൾ പ്രാക്ടീസ് പ്രോബ്ലം 2 2 അതിനായുള്ള സൊല്യൂഷൻ നോക്കി നമ്മൾ മൊഡ്യൂൾ 2 ലാണ് അത് ബയോ റിയാക്ടറുകളിൽ നിന്നുള്ള രണ്ട് പ്രധാന ഫലങ്ങൾ ബയോമാസ് ഉൽപ്പന്നങ്ങൾ എൻസൈമുമായി ബന്ധപ്പെട്ട ചില വശങ്ങൾ എൻസൈം പ്രതിപ്രവർത്തനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവ പരിശോധിക്കുന്നു നമുക്ക് ആ മൊഡ്യൂളുമായി മുന്നോട്ട് പോകാം മിക്കവാറും ഈ പ്രഭാഷണത്തിലെ മൊഡ്യൂൾ നമ്മൾ പൂർത്തിയാക്കും ഈ പ്രഭാഷണത്തിൽ നമ്മൾ കാണാൻ പോകുന്ന അവസാന വശം ബയോമാസ് അല്ലെങ്കിൽ കോശങ്ങളുടെ സാന്ദ്രത സബ്സ്ട്രേറ്റ് ഉൽപ്പന്നങ്ങൾ അളവെടുക്കൽ രീതികൾ എന്നിവയാണ് കയ്നെറ്റിക്സിന്റെ കാര്യത്തിൽ ബയോമാസ് സബ്സ്ട്രേറ്റ് സാന്ദ്രത ഉൽപന്ന സാന്ദ്രത എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ എത്രത്തോളം നിർണായകമാണെന്ന് നമ്മൾ കണ്ടു അതായത് പ്രസക്തമായ റിയാക്ടറുകളുടെ രൂപകൽപ്പനയിലും പ്രവർത്തനത്തിലും അതിനാൽ ബയോമാസ് കോശങ്ങൾ അല്ലെങ്കിൽ ബയോമാസ് സബ്സ്റ്റേറ്റുകൾ ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ സാന്ദ്രത കണ്ടെത്താൻ നമുക്ക് നല്ല അളവെടുക്കൽ രീതികൾ ആവശ്യമാണ് ഇവയ്ക്കായി ഉപയോഗിക്കുന്ന പൊതുവായ ചില അളവെടുക്കൽ രീതികൾ നമ്മൾ പരിശോധിക്കും രണ്ട് തരത്തിലുള്ള രീതികളുണ്ട് ഒന്ന് ഓൺലൈനും മറ്റൊന്ന് ഓഫ്ലൈനും ഓൺലൈൻ എന്നാൽ ബയോ റിയാക്ടറെ ശല്യപ്പെടുത്തില്ല എന്നാണ് ഒരു തടസ്സവുമില്ലാതെ പ്രക്രിയ തുടരുന്നതിനാൽ ഇത് ഓൺലൈനിൽ അളക്കുന്നു ഓഫ്ലൈൻ നമ്മൾ ബയോ റിയാക്ടറുകളിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്ത് അകലെ അളക്കുന്നു ഇതിനെ ഓഫ്ലൈൻ രീതി എന്ന് വിളിക്കുന്നത് നമ്മൾ ചില ഓൺലൈൻ രീതികൾ നോക്കും അവ തീർച്ചയായും ഇഷ്ടപ്പെടുന്നു കാരണം അവ ബയോ റിയാക്ടറിനെ ശല്യപ്പെടുത്താതെ താൽപ്പര്യമുള്ള ഘട്ടത്തിൽ അളക്കുന്നു അതിനാൽ മികച്ച വിവരങ്ങൾ ഓൺലൈൻ രീതികളിൽ നിന്നുമാണ് ലഭിക്കുന്നത് പക്ഷേ കുറച്ച് വിശ്വസനീയമായ അളവുകൾക്ക് മാത്രമേ ലഭ്യമാകൂ മാത്രമല്ല ഇത് ഓൺലൈൻ രീതികളിലെ ബുദ്ധിമുട്ടായിത്തീരുന്നു ഉദാഹരണത്തിന് കോശങ്ങളുടെ സാന്ദ്രത അളക്കുന്നത് നോക്കുകയാണെങ്കിൽ കുറച്ച് ഓൺലൈൻ രീതികളുണ്ട് കോശത്തിനുളളിലെ ഒരു തന്മാത്രയുടെ ഫ്ലൂറസെൻസിനെ അളക്കുന്ന ഫ്ലൂറസെൻസ് രീതി ഉണ്ട് അതിനെ NADH എന്ന് വിളിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം NADH നിക്കോട്ടിനമൈഡ് അഡിനിൻ ഡൈന്യൂ ക്ലിയോടൈഡ് ഇതിന്റെ ഹൈഡ്രജൻ രൂപം NADH ഫ്ലൂറസെന്റ് ആണ് NAD അല്ല NADH ന്റെ അളവ് കോശങ്ങളുടെ സാന്ദ്രതയുടെ നേരിട്ടുള്ള സൂചനയാണ് NADH ഫ്ലൂറസെൻസ് ഉയർന്നത് കോശങ്ങളുടെ സാന്ദ്രതയേക്കാൾ കൂടുതലാണ് ബന്ധം എന്തണെന്നു അറിയുന്നത് സ്ഥാപിക്കപ്പെട്ടു അതിനാൽ നമുക്ക് NADH ഫ്ലൂറസെൻസിലൂടെ കോശങ്ങളുടെ സാന്ദ്രത വർദ്ധിക്കുന്നത് പിന്തുടരാം അല്ലെങ്കിൽ ഇതിനെ കൾച്ചർ ഫ്ലൂറസെൻസ് എന്നും വിളിക്കുന്നു NADH ഫ്ലൂറസെൻസിലെ മാറ്റം സാധാരണ ചെയ്യുന്നത് ഫ്ലൂറസെൻസ് മെഷർമെന്റ് പ്രോബ് ബയോ റിയാക്ടറിൽ പ്രത്യേക കിണറ്റിൽ സ്ഥാപിച്ചിരിക്കുന്നു ഇതൊരു ഒപ്റ്റിക്കൽ പ്രോബാണ് അതിനുമുമ്പ് ഞാൻ നിങ്ങളോട് പറയേണ്ടതുണ്ട് NADH നായുള്ള ഒപ്റ്റിമൽ വേവ് ലെങ്ത് ജോഡി 340 460 നാനോമീറ്ററാണ് അതിനാൽ ഗവേഷണ തരംഗദൈർഘ്യം 340 നാനോമീറ്ററിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് വികിരണ തരംഗദൈർഘ്യം 460 നാനോമീറ്ററിൽ അളക്കേണ്ടതുണ്ട് ഒരു സ്പെക്ട്രോഫ്ലൂറിമീറ്ററിൽ നമുക്ക് ഒരു നല്ല കുവെറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അളവുകൾ ഉണ്ട് നമുക്ക് 340 ൽ അയയ്ക്കാനും 460 ആയി അളക്കാനുമുള്ള ഒരു നിയന്ത്രിത മാർഗമുണ്ട് അതേസമയം ബയോ റിയാക്ടറിൽ സാധാരണയായി ചെയ്യുന്നത് ഫൈബർ ഒപ്റ്റിക് പ്രോബാണ് സ്പെക്ട്ര ഫ്ലൂറിമീറ്ററുമായി ബന്ധിപ്പിക്കുന്നത് ഫൈബർ ഒപ്റ്റിക് ബണ്ടിൽ ചില ബണ്ടിലുകൾ സ്പെക്ട്ര ഫ്ലൂറിമീറ്ററിൽ നിന്നുള്ള ആവേശ തരംഗദൈർഘ്യം വഹിക്കുന്നു കൂടാതെ ഓപ്പൺ എൻഡ് ജോമേറ്ററിയുടെ അളവുകൾ പ്രദർശിപ്പിക്കും 460 ലെ എമിഷൻ തരംഗദൈർഘ്യം സ്പെക്ട്ര ഫ്ലൂറിമീറ്ററിലേക്ക് തിരികെ കൊണ്ടുപോയി അളക്കുന്ന അതേ ഫൈബർ ഒപ്റ്റിക് പ്രോബിലൂടെ ശേഖരിക്കുകയും അളക്കുകയും ചെയ്യുന്നു ഇതിനെ ഓപ്പൺ എൻഡ് ജോമേറ്ററി ഓഫ് മെഷർമെന്റ് എന്ന് വിളിക്കുന്നു ശരി അവയാണ് വിശദാംശങ്ങൾ ഇവിടെ പ്രധാന കാര്യം കൾച്ചർ ഫ്ലൂറസെൻസ് അല്ലെങ്കിൽ NADH ഫ്ലൂറസെൻസ് പിന്തുടർന്ന് കോശങ്ങളുടെ അളക്കാൻ കഴിയും എന്നതാണ് കോശങ്ങളുടെ ചാലകത അളക്കാനും കഴിയും അതിനായി ചില പ്രോബ്സ് ഉണ്ട് വിശ്വാസ്യത അത്ര ഉറപ്പില്ലായിരിക്കാം അതും ഒരു ഓൺലൈൻ രീതിയാണ് സബ്സ്ട്രേറ്റ്നും ഉൽപ്പന്ന സാന്ദ്രതയ്ക്കും ഓൺ ലൈൻ രീതികളുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒപ്റ്റിക്കൽ ഫൈബർ ഒരു സ്പെക്ട്രോഫോട്ടോമീറ്റർ അല്ലെങ്കിൽ ഒരു ഫ്ലൂറിമീറ്ററുമായി സംയോജിപ്പിച്ചിരിക്കുന്നു q അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നതിനാൽ നമുക്ക് ബയോ റിയാക്ടറിൽ നിന്ന് ഒരു സാമ്പിൾ എടുക്കാം പക്ഷേ ഒരു ഫ്ലോ സെൽ എന്ന് വിളിക്കുന്നതിലൂടെ ഒഴുകിയ ശേഷം സാമ്പിൾ ബയോ റിയാക്ടറിലേക്ക് തിരികെ കൊണ്ടുവരിക അളക്കാനായി ഫ്ലൂറിമീറ്റർ സ്ഥാപിച്ചു ഇത് ചെയ്യുന്നതിനുള്ള മറ്റൊരു മാർഗമാണിത് ചില സബ്സ്ട്രേറ്റുകൾക്കും ചില ഉൽപ്പന്നങ്ങൾക്കും നമുക്ക് അബ്സോർബൻസ് ഫ്ലൂറസെൻസ് ഉപയോഗിക്കാം അടുത്തിടെ എല്ലാവർക്കും താൽപ്പര്യമുള്ളത് ഇതിനെ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിക് എന്ന് വിളിക്കുന്നു വാസ്തവത്തിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പേപ്പർ ഉണ്ട് അത് സഞ്ജയ് തിവാരി ചെയ്തതാണ് പിഎച്ച്ഡിPh D തീസിസിന്റെ ഭാഗമായി ഇത് വികസിപ്പിച്ചെടുത്തു ഇത് വ്യവസായത്തിലും പ്രയോഗിച്ചു ഇവിടെയുള്ള പ്രയോജനം ഇത് ഒരു പ്രത്യേക കേസായി ഞാൻ സംസാരിക്കട്ടെ അതുവഴി നമുക്ക് അതിന്റെ ഗുണം മനസ്സിലാകും ഇവിടെ ഈ വ്യവസായം കുറഞ്ഞ അളവിലുള്ള സബ്സ്ട്രേറ്റ് ഉൽപ്പന്നമായി ഉയോഗിക്കുന്നതിന് നോക്കുകയായിരുന്നു കാരണം ഈ സബ്സ്ട്രേറ്റ് കോശങ്ങൾക്കു വിഷാംശം ഉണ്ടാകുന്നു അതായത് അവയുടെ ഒരു ഉൽപ്പന്നമായ വാണിജ്യ ഉൽപ്പന്നത്തിന് അതിനാൽ സബ്സ്ട്രേറ്റ് ഒരു നിശ്ചിത കുറഞ്ഞ സാന്ദ്രതയിൽ നിലനിർത്തേണ്ടതുണ്ട് ഏകദേശം മില്ലിമോളാർ ക്രമത്തിൽ 5 മുതൽ 5 മില്ലിമോളാർ വരെ ആണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ സബ്സ്ട്രേറ്റ് സാന്ദ്രത അളക്കേണ്ടതുണ്ടെങ്കിൽ താഴ്ന്ന നിലയിൽ സൂക്ഷിക്കേണ്ടതുണ്ട് കൂടാതെ ഉൽപ്പന്ന സാന്ദ്രത ഒരു നിശ്ചിത തലത്തിൽ നിലനിർത്തേണ്ടതുണ്ട് അല്ലാത്തപക്ഷം അത് വിഷലിപ്തമാകും അതിനാൽനമ്മൾ പിന്തുടർന്ന പഴയ രീതി ഇതുപോലെയായിരുന്നു അവർ ബയോ റിയാക്ടറിൽ നിന്ന് ഒരു സാമ്പിൾ എടുക്കും ഇതാണ് പ്രൊഡക്ഷൻ റിയാക്ടർ ഉൽപാദന യൂണിറ്റിൽ നിന്നും അകലെയുള്ള ലാബിൽ എച്ച്പിഎൽസി മുതലായ അളവുകൾ ലഭ്യമാണ് ഉൽപാദന യൂണിറ്റ് വലുതാണ് അതിനാൽ അവർ ഇവിടെ നിന്ന് ഒരു സാമ്പിൾ എടുക്കണം വരൂ അളക്കുക അളക്കാൻ ഏകദേശം 20 25 മിനിറ്റ് സമയമെടുക്കും തുടർന്ന് അത് തിരികെ കൊണ്ടുവരേണ്ടതുണ്ട് അപ്പോഴേക്കും ഉൽപ്പന്ന സാന്ദ്രത വർദ്ധിക്കുകയും അവയ്ക്ക് ബാച്ച് നഷ്ടപ്പെടുകയും അത് കോശങ്ങൾക്ക് വിഷമായി മാറുകയും ബാച്ച് നഷ്ടപ്പെടുകയും ചെയ്യുമായിരുന്നു അതിനാൽ അത് ഒഴിവാക്കാൻ അവർക്ക് തീർച്ചയായും ഒരു ഓൺലൈൻ അളവ് ആവശ്യമാണ് അത് സാന്ദ്രത എന്താണെന്ന് ഉടനടി അവരോട് പറയും അങ്ങനെ ഉൽപ്പന്ന നിലകൾ സ്വീകാര്യമായ തലങ്ങളിൽ നിലനിർത്താൻ ഉചിതമായ നടപടി സ്വീകരിക്കാൻ അവർക്ക് കഴിയും അതിനാൽ ഞാൻ NIR സ്പെക്ട്രോസ്കോപ്പിയിൽ പ്രവർത്തിക്കുകയും അതിനായി ഒരു രീതി വികസിപ്പിക്കുകയും ചെയ്തു ഇത് വ്യവസായത്തിന് വളരെയധികം ഗുണം ചെയ്തു അത് അവിടെയുള്ള ഒരു പേപ്പറാണ് അത് ബയോകെമിക്കൽ എഞ്ചിനീയറിംഗ് ജേണലിൽ പ്രസിദ്ധീകരിച്ചു നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ അത് പരിശോധിക്കാം ബയോ റിയാക്ടറിൽ നിന്ന് പുറത്തുവരുന്ന വാതകം ഇപ്പോൾ നമ്മൾ മിക്ക എയറോബിക് ബയോ റിയാക്ടർ സിസ്റ്റങ്ങൾക്കും വായു നൽകുന്നു CO ഉം O2ഉം അടങ്ങുന്ന എക്സിറ്റ് ഗ്യാസ് തീർച്ചയായും നൈട്രജനും മറ്റും ബയോ റിയാക്ടറിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കുറച്ച് ഇൻപുട്ട് നൽകാനും ഇത് കണക്കാക്കാം അതിനാൽ അവ ലഭ്യമായ ഓൺലൈൻ രീതികളാണ് ചിലത് ലഭ്യമാണ് എന്നാൽ ഓഫ് ലൈനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നിരുന്നാലും നമ്മൾ ഇപ്പോൾ സംസാരിച്ചതുപോലുള്ള ഓഫ് ലൈൻ സിസ്റ്റത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ട് നമുക്ക് ഓഫ് ലൈൻ അളവുകൾ നോക്കാം മൊത്തം കോശങ്ങളുടെ അളക്കുന്നത് നോക്കാം ഒരെണ്ണം എടുക്കുക അത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു മൊത്തം കോശങ്ങളുടെ സാന്ദ്രത നമ്മൾ ഒരു കൂട്ടം കോശങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ തൽസമയ കോശങ്ങളും നിർജ്ജീവ കോശങ്ങളും അടങ്ങിയിരിക്കുന്നു നമ്മൾ തത്സമയ കോശങ്ങളിലേക്കു മാത്രം നോക്കുകയാണെങ്കിൽ കാരണം ഉൽപാദനക്ഷമമായ കോശങ്ങളാണ് ഉൽപ്പന്ന രൂപീകരണത്തിനും മറ്റും സംഭാവന ചെയ്യുന്നത് നമ്മൾ പ്രാപ്യമായ കോശങ്ങളുടെ സാന്ദ്രത പിന്തുടരാൻ താൽപ്പര്യപ്പെടുന്നു ചില സമയങ്ങളിൽ വൈബിലിറ്റി ശതമാനം വളരെ ഉയർന്നതാണ് 97 98 ശതമാനം ഇത് നമ്മുടെ പ്രായോഗിക കോശങ്ങളുടെ സാന്ദ്രതയാണോ അല്ലെങ്കിൽ മൊത്തം കോശങ്ങളുടെ സാന്ദ്രതയാണോ പിന്തുടരുന്നത് എന്നത് ഒരു വ്യത്യാസവുമില്ല എന്നാൽ തത്വത്തിൽ ഒരു വ്യത്യാസമുണ്ട് അതിലോട്ടു വരാം അത് പ്രധാനപ്പെട്ടതായി മാറാം വ്യത്യാസം പ്രധാനപ്പെട്ടതായി മാറും അതിനാൽ ഒരു മൊത്തത്തിലുള്ള കോശ സാന്ദ്രത ഉണ്ടെന്നു നമ്മൾ അറിയണം അതോടൊപ്പം കോശങ്ങളുടെ അവളും അതിനാൽമൊത്തം കോശങ്ങളുടെ സാന്ദ്രത അളക്കുന്നതിനുള്ള രീതികൾ ആദ്യം നോക്കാം ആദ്യത്തേത് OD അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് വിളിക്കുന്നു OD എന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സൂചിപ്പിക്കുന്നു ഇത് ചരിത്രപരമായ ഒരു പദമാണ് അത് അളക്കുന്നതിനെ പ്രതിനിധീകരിക്കുന്നില്ല പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും നമുക്ക് ഡ്രൈ മാസ് അളക്കാനും സാമ്പിൾ എടുക്കാനും കഴിയും ആവശ്യത്തിന് വലിയ സാമ്പിൾ പൂർണ്ണമായും ഡ്രൈ ആകുക തുടർന്ന് മാസ്സ് അളക്കുക അതാണ് നമുക്ക് മാസ്സ് അറിയാം ആ മാസ്സ് ഒരു നിശ്ചിത അളവിൽ നിന്നാണ് വന്നത്മാസ്സിനെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ സാന്ദ്രത കിട്ടുന്നതാണ് നമുക്ക് പായ്ക്ക് ചെയ്ത സെൽ വോളിയം എന്ന് വിളിക്കാം സാധാരണ വ്യവസായത്തിൽ കോശങ്ങളുടെ കേന്ദ്രീകൃത ലായനിയിൽ കോശങ്ങൾ ഉൾക്കൊള്ളുന്ന വോളിയമാണിത് അതിനാൽ ഇത് പായ്ക്ക്ഡ് സെൽ വോളിയമാണ് ഇത് ചില വ്യവസായങ്ങളിൽ മൊത്തം കോശ സാന്ദ്രതയുടെ അളവുകോലായി ഉപയോഗിക്കുന്നു കോശങ്ങൾ ഉൾക്കൊള്ളുന്ന വോളിയത്തിന്റെ അംശം അല്ലെങ്കിൽ നമ്മുടെ കോശ ഉള്ളടക്കങ്ങളുടെ അളവ് പ്രത്യേകിച്ചും അച്ചുകൾക്കായി ഉപയോഗിക്കാം ഹൈഫെയുടെ വിപുലീകരണത്തിലൂടെ വളരുന്ന ജീവികളാണ് അച്ചുകൾ എന്ന് പറഞ്ഞിരുന്നു അതിനാൽ സെല്ലുകളുടെ എണ്ണം ഒരു സൂചകമായിരിക്കില്ല ഇത് ഒരു സെൽ മാത്രമാണ് പക്ഷേ ഹൈഫയുടെ വിപുലീകരണത്തിലൂടെ മാസ് വർദ്ധിക്കുന്നു അത്തരം ജീവികൾക്കായി നമ്മൾ കോശങ്ങളുടെ ഉള്ളടക്കങ്ങൾ അളന്നു അതിനാൽ മൊത്തം കോശങ്ങളുടെ സാന്ദ്രത അളക്കുന്നതിനുള്ള രീതികളാണ് അവ നമുക്ക് തത്ത്വങ്ങൾ ഓരോന്നായി കാണാം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് വിളിക്കപ്പെടുന്നത് ഒരു സ്പെക്ട്രോഫോട്ടോമീറ്റർ ഉപയോഗിച്ചാണ് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ കോശം സ്കാറ്റർഡ് ആയി പോകുന്നതിന്റെ അളവാണ് ഇത് കോശം ആഗിരണം ചെയ്യുന്നതിന്റെ അളവുകോലല്ല ഇത് നമ്മൾ വളരെ വ്യക്തമായി ഓർമ്മിക്കേണ്ട ഒന്നാണ് നമുക്ക് ഇവിടെ കുവെറ്റ് ഉണ്ട് കുവെറ്റിന് ഇവിടെ ഒരു കോശം സസ്പെൻഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാം മെഷർമെന്റ് ലെവൽ വരെ നിറക്കുക തുടർന്ന് ഒരു പ്രത്യേക തരംഗദൈർഘ്യം കുവെറ്റിൽ കാണിക്കുന്നു കോശങ്ങൾ അവ മൈക്രോൺ വലുപ്പമാണെന്ന് നമുക്കറിയാം അതിനാൽ മൈ സ്കാറ്ററിംഗ് റേഞ്ച് പ്രാബല്യത്തിൽ വരും അവ സ്കാറ്റർഡ് ആയി കിടക്കുന്നു പ്രകാശം സ്കാറ്റർഡ് ആവാത്തതിന്റെ അളക്കുന്ന ഡിറ്റക്ടറിലേക്ക് അയയ്ക്കുന്നു അതിനാൽ അത് അളക്കുകയും സ്കാറ്റർഡ് ആയ പ്രകാശത്തിന്റെ വ്യാപ്തി ലഭിക്കുന്നതിന് ഇൻകമിംഗ് ലൈറ്റുമായി ബന്ധപ്പെടുകയും ചെയ്യുന്നു സ്കാറ്റർഡ് ആയ പ്രകാശം കോശങ്ങളുടെ സാന്ദ്രതയ്ക്ക് ആനുപാതികമാണ് ഈ വ്യത്യാസം നമ്മുടെ മനസ്സിൽ വളരെ വ്യക്തമായി സ്ഥാപിക്കുക ഇത് കോശങ്ങളുടെ സ്കാറ്ററാണ് കോശങ്ങളുടെ അബ്സോർബെൻസ് അല്ല ഒരേ ഉപകരണം ഉപയോഗിക്കുകയും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് വിളിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിലും ഈ പദം പൂർണ്ണമായ തെറ്റായ നാമമാണ് എന്നാൽ തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് തെറ്റായ നാമമാണ് എങ്കിലും ഇത് നന്നായി അംഗീകരിക്കപ്പെട്ട പദമാണ് എന്നാൽ ഇത് മനസ്സിൽ വയ്ക്കുക ഇത് ഒരു അളവുകോലാണ് കോശങ്ങൾ സ്കാറ്റർഡ് ആകുന്നു കോശങ്ങൾ സ്കാറ്റർഡ് ആകുന്നു സ്കാറ്റർഡ് ആകുന്ന തുക കോശങ്ങളുടെ സാന്ദ്രതയ്ക്ക് ആനുപാതികമാണ് 600 ഓളം നാനോമീറ്ററുകൾ നമ്മൾ ഉപയോഗിച്ചതിന്റെ കാരണം അതാണ് സ്കാറ്ററിങ് ആണ് തത്വം കാര്യങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ തരംഗദൈർഘ്യം കോശം ആഗിരണം ചെയ്യാത്തപ്പോൾ സ്കാറ്ററിങ് പരമാവധി സംഭവിക്കുന്നു അതിനാൽ കോശം ആഗിരണം ചെയ്യാത്ത തരംഗദൈർഘ്യങ്ങളുമായി പ്രവർത്തിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ 500 മുതൽ 600 വരെയുള്ള പരിധി യഥാർത്ഥത്തിൽ മികച്ചതാണ് വാസ്തവത്തിൽ ഞാൻ ചില സന്ദർഭങ്ങളിൽ 450 പോലും ഉപയോഗിച്ചു അതിനാൽ ഇതും മികച്ചതാണ് കാരണം നമ്മൾ സ്കാറ്റർ ചെയുന്ന പ്രകാശത്തിന്റെ വ്യാപ്തി അളക്കുന്നു ഡ്രൈ സെൽ സാന്ദ്രതയ്ക്കിടയിൽ ഒരു കാലിബ്രേഷൻ കർവ് ഉപയോഗിക്കുക എന്നതാണ് പിന്നീട് ചെയ്യുന്നത് ഡ്രൈ സെൽ അളക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചതെന്ന് ഓർക്കുക നമ്മൾ ആവശ്യത്തിന് വലിയ സാമ്പിളുകൾ എടുക്കുന്നു രാത്രി മുഴുവൻ വാക്വം ഓവൻ ഉപയോഗിച്ച് നമ്മൾ സെല്ലുകൾ പൂർണ്ണമായും വറ്റിച്ചു തുടർന്ന് ആ പ്രത്യേക അളവിൽ ഉണ്ടായിരുന്ന സെല്ലുകളുടെ മാസ്സ് നമ്മൾ അളക്കുന്നു അതിനാൽ നമുക്ക് ഒരു ഡ്രൈ സെൽ ഉണ്ട് നമ്മൾ ഡ്രൈ ചെയ്യാൻ പോകുന്നതിനുമുമ്പ് നമ്മൾ ഒരു സാമ്പിൾ എടുത്ത് OD അളക്കുകയും അതുവഴി ഡ്രൈ സെൽ സാന്ദ്രത അവയുടെ വിവിധ മൂല്യങ്ങൾ ODമായി ബന്ധപ്പെടുത്തുകയും ചെയ്യാം നമുക്ക് ഒരു നിശ്ചിത പരിധിയിൽ ഒരു നേർരേഖ ലഭിക്കും അതാണ് കാലിബ്രേഷൻ കർവ് ഈ കാലിബ്രേഷൻ കർവ് ഉപയോഗിച്ച് നമുക്ക് OD അളക്കാനും പ്രസക്തമായ ഡ്രൈ സെൽ നേടാനും കഴിയും അതാണ് സാധാരണ ചെയ്യുന്നത് അളക്കുമ്പോൾ ലീനിയർ ഭരണം പ്രധാനമാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് രേഖീയത അവിടെ രണ്ട് വശങ്ങളുണ്ട് OD യ്ക്കെതിരെ നമ്മൾ സെൽ ഡ്രൈ സെൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരു നിശ്ചിത പോയിന്റ് വരെ രേഖീയമായിരിക്കും കൂടാതെ ഒരു നിശ്ചിത ഡ്രൈ സെൽ യ്ക്ക് മുകളിലായി രേഖീയത ഇലാതാകുന്നു അതൊരു പ്രകൃതി നിയമമാണ് അതിനാൽ ഇത് ഇവിടെയും ഒരു പ്രത്യേക ഡ്രൈ സെല്ലി നു മുകളിലായി ലീനിയർ ആകാൻ പോകുന്നു ഇത് യഥാർത്ഥത്തിൽ പൂരിതമാകും നമ്മൾ ഈ പ്രദേശത്ത് പ്രവർത്തിക്കരുത് തീർച്ചയായും നമ്മൾ അളക്കുന്നു പക്ഷേ നമ്മുടെ പ്രവർത്തന പരിധി ഈ രേഖീയ മേഖലയിലേക്ക് പരിമിതപ്പെടുത്തുന്നു മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ രേഖീയ പ്രദേശത്ത് മാത്രം അളക്കേണ്ടതുണ്ട് അത് ഉയർന്ന OD മേഖലയിലാണെങ്കിൽ ഈ ശ്രേണിയിൽ OD റീഡിങ് ലഭിക്കുന്നതിന് നമ്മൾ സാമ്പിൾ നേർപ്പിക്കുകയും തുടർന്ന് അളന്ന OD യുമായി പൊരുത്തപ്പെടുന്ന ഡ്രൈ സെൽ നേടുകയും യഥാർത്ഥ OD ലഭിക്കുന്നതിന് ഡില്യൂഷൻ ഫാക്ടർ കൊണ്ട് ഗുണിക്കുകയും വേണം ഇതെല്ലാം നമ്മൾ പിന്തുടരുകയാണെങ്കിൽ അത് നല്ലതാണ് അല്ലാത്തപക്ഷം അളക്കേണ്ട ആവശ്യമുള്ളപ്പോഴെല്ലാം ഇത് മനസ്സിൽ വയ്ക്കുക നമ്മൾ ഇത് വിശദമായി പരിശോധിക്കുകയോ അല്ലെങ്കിൽ ചില റഫറൻസ് പുസ്തകം നോക്കുകയോ ചെയ്യുക നിങ്ങൾക് എല്ലായ്പ്പോഴും എന്നോടും ചോദിക്കാം രേഖീയത നഷ്ടപ്പെടുന്നതിന് മറ്റൊരു കാരണമുണ്ട് അത് ഡിറ്റക്ടർ റേഞ്ച് മൂലമാണ് ഡിറ്റക്ടറിൽ എത്തുന്ന പ്രകാശത്തിന്റെ അളവ് ഒരു നിശ്ചിത നിലവാരത്തിന് താഴെയാണെങ്കിൽ അല്ലെങ്കിൽ ചിതറിക്കിടക്കുന്ന പ്രകാശത്തിന്റെ അളവ് വളരെ ഉയർന്നതാണെങ്കിൽ ഡിറ്റക്ടർ സാച്ചുറേഷൻ സംഭവിക്കുന്നു അതും ഒരു പ്രശ്നമുണ്ട് അതിനാൽ ഡിറ്റക്ടർ സാച്ചുറേഷൻ മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുന്നില്ല സ്പെക്ട്രോഫോട്ടോമീറ്ററിനെ ആശ്രയിച്ച് 0 1 നും ഒന്നോ അതിലധികമോ ഇടയിലുള്ള OD മൂല്യങ്ങൾ മാത്രം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് എനിക്ക് വളരെ സുഖകരമാണ്അവിടെ ലീനിയർ ഭാഗവും നോർമൽ ഡിറ്റക്ടർ റീജിയനുമാണ് സാധാരണ ഡിറ്റക്ടർ മേഖലയിലും വളരെ കൂടുതലാണ് തീർച്ചയായും ഇത് സ്പെക്ട്രോമീറ്റർ പരമാവധി മൂല്യം തുടങ്ങിയവയെ ആശ്രയിച്ചിരിക്കുന്നു ഈ അളവെടുപ്പിനിടെ ലവണങ്ങൾ സബ്സ്ട്രേറ്റ് എന്നിവയുടെ ഇടപെടലിനെക്കുറിച്ച് നമ്മൾ നോകേണ്ടതുണ്ട് കാരണം നമ്മൾ ഇവിടെ ഒരു സാമ്പിൾ എടുക്കുന്നു എല്ലാം ഡ്രൈ ആകുന്നു ഡ്രൈ ആകുമ്പോൾ ചാറിൽ ലയിക്കുന്നവയെല്ലാം മാസിന്റെ അളവിന് കാരണമാകും അതിനാൽ അളക്കുന്ന മാസിൽ ഡ്രൈ സെൽസ് ലവണങ്ങളും ഉപയോഗശൂന്യമായ സബ്സ്ട്രേറ്റും മറ്റ് വസ്തുക്കളും അടങ്ങിയിരിക്കും അതിനാൽ നമുക്ക് ഉചിതമായ ഒരു നിയന്ത്രണം ആവശ്യമാണ് അതിലൂടെ നമുക്ക് ലവണങ്ങൾ സബ്സ്ട്രേറ്റ് എന്നിവയുടെ മാസ്സ് കണക്കാക്കാം അങ്ങനെ OD അളക്കുമ്പോൾ നാം കണക്കിലെടുക്കേണ്ടതുണ്ട് ഇതൊരു മികച്ച പോയിന്റാണ് അളവെടുക്കുന്നതിനിടയിൽ ഇത് ഇവിടെ പരാമർശിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു വീഡിയോയുണ്ട് ലിങ്ക് കാണിച്ചുതരാം അത് നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ നൽകും നമുക്ക് ഒന്ന് നോക്കാം ഇത് 14 ാം നമ്പർ OD അളക്കലിൽ നൽകിയിരിക്കുന്നു നമുക്ക് പോയി ഈ വീഡിയോ നോക്കാം പായ്ക്ക്ഡ് സെൽ വോളിയം മൊത്തം ശതമാനം ഇത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു ഇത് ഒരു സെൽ സസ്പെൻഷനായിരിക്കുമോ ഒരു സെൻട്രിഫ്യൂജ് ഉപയോഗിച്ച് നിങ്ങൾ അത് താഴേക്ക് സ്പിൻ ചെയ്യുന്നുവെന്ന് നിങ്ങൾക്കറിയാം കൂടാതെ കോശങ്ങൾ ഈ വോളിയം ഇവിടെ കൈവരിക്കാൻ പോകുന്നു ആകെ വോളിയം ഇതാണ് അതിനാൽ മൊത്തം വോളിയം അനുസരിച്ച് ഈ വോളിയം നമുക്ക് പായ്ക്ക് ചെയ്ത സെൽ വോളിയം നൽകും ഇത് വ്യവസായത്തിൽ ഉപയോഗിക്കുന്നു അടുത്തത് കോശങ്ങളുടെ ഉള്ളടക്കങ്ങളുടെ അളവാണ് പ്രത്യേകിച്ചും മോൾഡിനു വേണ്ടിയുള്ളത് അത് വളരുന്നത് കോശങ്ങളുടെ വിഭജനത്തിലൂടെയല്ല ഹൈഫയുടെ വിപുലീകരണത്തിലൂടെയാണ് DNAയുടെ അളവ് മൊത്തം നൈട്രജന്റെ അളവ് പ്രോട്ടീന്റെ അളവ് കോശങ്ങളിലെ അമിനോ ആസിഡിന്റെ അളവ് എന്നിവ കണക്കാക്കാം ഒരു സെല്ലിന് DNAയുടെ ശതമാനം വളരെയധികം വ്യത്യാസപ്പെടുന്നില്ലെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ ഇത് കോശങ്ങളുടെ യുടെ നേരിട്ടുള്ള അളവുകോലായി മാറുന്നു കോശങ്ങളെ അതിന്റെ ഉള്ളടക്കത്തിന്റെ അളവിലൂടെ അളക്കുന്നതിനുള്ള അടിസ്ഥാനമാണിത് പ്രാധാന്യമുള്ള ക്രമത്തിൽ DNA മൊത്തം നൈട്രജൻ പ്രോട്ടീൻ അമിനോ ആസിഡുകൾ എന്നിവയാണ് അളക്കുന്ന സാധാരണ ഉള്ളടക്കങ്ങൾ DNA സാധാരണയായി അഭികാമ്യമാണ് കാരണം കോശത്തിന്റെ സൈക്കിളിന്റെ വിവിധ ഭാഗങ്ങളിൽ അത് വളരെയധികം വ്യത്യാസപ്പെടില്ല അതിനാൽ മൊത്തം നൈട്രജൻ അളക്കാൻ കഴിയും പ്രോട്ടീനും അളക്കാൻ കഴിയും പക്ഷേ വ്യത്യാസങ്ങളുണ്ടാകും അമിനോ ആസിഡുകൾക്ക് ചില വ്യതിയാനങ്ങളുണ്ട് പക്ഷേ ഇവയെല്ലാം കോശങ്ങളുടെ ഉള്ളടക്കങ്ങൾ അളക്കുന്നതിനുള്ള സ്വീകാര്യമായ രീതികളാണ് മൊത്തം കോശങ്ങളുടെ അളക്കുന്നതിനുള്ള രീതികളായിരുന്നു അവ ഇപ്പോൾ ബയോ റിയാക്ടറിന്റെ പ്രവർത്തനത്തിന് യഥാർത്ഥത്തിൽ സംഭാവന നൽകാൻ പോകുന്നത് കോശങ്ങൾ ആണെങ്കിൽ തത്സമയവും സജീവവുമായ കോശങ്ങളുടെ സാന്ദ്രത അളക്കുന്നതിനുള്ള രീതികൾ നോക്കാം ഡൈ എക്സ്ക്ലൂഷൻ പ്ലേറ്റിംഗ് എന്നിവയും മറ്റുള്ളവയുമാണ് രീതികൾ നമുക്ക് ഈ രണ്ട് രീതികൾ നോക്കാം ഇവിടെ വീഡിയോകളുണ്ട് ഞാൻ വീഡിയോകളിലേക്ക് പ്രവേശിക്കുന്നതിനുമുമ്പ് ഡൈ എക്സ്ക്ലൂഷന്റെയും പ്ലേറ്റിംഗിന്റെയും തത്വം ഞാൻ നിങ്ങളോട് പറയട്ടെ ഡൈ എക്സ്ക്ലൂഷൻ എന്നതിനർത്ഥം അല്ലെങ്കിൽ ദൃശ്യവൽക്കരിക്കാവുന്ന ചില ചായങ്ങളെ ജീവനുള്ള കോശങ്ങൾ ഒഴിവാക്കുന്നു എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ചായത്തിന്റെ സാന്നിധ്യത്തിൽ കോശങ്ങൾ നിറമില്ലാതായി കാണപ്പെടുന്നു അതിനാൽ നിറമില്ലാത്ത കോശങ്ങളുടെ എണ്ണം കണക്കാക്കുകയും മൊത്തം കോശങ്ങളുടെ എണ്ണം കണക്കാക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് നേരിട്ടുള്ള അളവുകളിൽ നിന്ന് ശതമാനം പ്രവർത്തനക്ഷമതയോ അല്ലെങ്കിൽ പ്രായോഗിക കോശങ്ങളുടെ സാന്ദ്രതയോ ആകാം ഈ അളവുകൾക്കായി ഉപയോഗിക്കാൻ കഴിയുന്ന പ്രത്യേക സ്ലൈഡുകൾ ഉണ്ട് അവയെ ന്യൂബാവർ ചേമ്പറുകൾ ഹീമോസൈറ്റോമീറ്ററുകൾ എന്ന് വിളിക്കുന്നു കൂടാതെ ഒരു പ്രത്യേക അളവിലുള്ള കോശങ്ങളുടെ എണ്ണം നമുക്ക് വിശ്വസനീയമായി അളക്കാൻ കഴിയുന്ന വഴികളുണ്ട് അതിനാൽ കോശങ്ങളുടെ ഡൈ എക്സ്ക്ലൂഷൻ രീതി തത്വമാണത് നമുക്ക് ഒരു അഗർ പ്ലേറ്റ് ഉണ്ടെന്നതാണ് പ്ലേറ്റിംഗ് തത്വം ഒരു സോളിഡ് മീഡിയം അഗർ അതിൽ അഗർ അടങ്ങിയിരിക്കുന്നു എന്നിട്ട് നമ്മൾ കോശങ്ങളുടെ ഒരു നിശ്ചിത സാന്ദ്രത എടുത്ത് അവയെ ഇവിടെ പ്ലേറ്റ് ചെയ്യുന്നു നമ്മൾ അവയെ ഇവിടെ പ്ലേറ്റ് ചെയ്യുമ്പോൾ കോശങ്ങൾ പെരുകാൻ പോകുന്നുവെന്നും അവ ഒരു പരിധിവരെ വർദ്ധിക്കുമ്പോൾ ഓരോ കോശങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന കോളനികൾ ദൃശ്യമാകുമെന്നും നമ്മൾ കരുതുന്നു ഒരു കോശം രണ്ട് കോശമായി മാറുന്നുവെന്ന് അറിയുക നാല് കോശങ്ങൾ എട്ട് കോശങ്ങൾ തുടങ്ങിയവ ഒരു കോളനി രൂപപ്പെടുന്നു ദശലക്ഷക്കണക്കിന് കോശങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഘട്ടത്തിൽ കോളനികൾ നഗ്നനേത്രങ്ങൾക്ക് ദൃശ്യമാവുകയും നമുക്ക് കോളനികളുടെ എണ്ണം കണക്കാക്കുകയും ചെയ്യാം ഓരോ കോളനിയും ഒരൊറ്റ കോശത്തിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് കരുതുക നമുക്ക് കോളനികളുടെ എണ്ണം കണക്കാക്കുകയും പ്ലേറ്റിംഗ് നടന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കോശങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെടുത്തുകയും ചെയ്യാം ഈ രീതികൾക്ക് സമയമെടുക്കും പ്ലേറ്റിംഗ് രീതിക്ക് സമയമെടുക്കും വേഗത്തിൽ വളരുന്ന ബാക്ടീരിയകൾക്കുപോലും നമ്മൾ ഇത് ഒറ്റരാത്രികൊണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട് പക്ഷേ ഇത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രീതിയാണ് കാരണം കോളനികൾ തത്സമയ കോശങ്ങളിൽ നിന്ന് മാത്രമേ ഉണ്ടാകൂ അതിനാൽ നമുക്ക് കോളനികളുടെ എണ്ണം കണക്കാക്കി സെൽ അളക്കാനാകുമെന്ന് ഇവിടെയുള്ള വീഡിയോകൾ വീഡിയോകളുടെ വിശദാംശങ്ങൾ കാണിച്ചുതരാം ട്രിപാനിനായി നമ്മൾ അവ കാണാൻ ആഗ്രഹിച്ചേക്കാം ട്രിപാൻ ബ്ലൂ എക്സ്ക്ലൂഷൻ രീതിയുടെ നമ്പർ പതിനഞ്ചാമത്തെ ആണ് കോശങ്ങളുടെ അളക്കുന്നതിന് പ്ലേറ്റിംഗിന് പതിനാറ് അളവെടുപ്പിന്റെ വിശദാംശങ്ങൾക്കായി നമുക്ക് കാണാൻ കഴിയുന്ന നല്ല വീഡിയോകളാണ് ഇവ സബ്സ്ട്രേറ്റ് ഉൽപന്ന സാന്ദ്രത സ്പെക്ട്രോസ്കോപ്പി എന്നിവയ്ക്കായി പലതരം സ്പെക്ട്രോസ്കോപ്പികൾ ഉപയോഗിക്കാം നമുക്ക് സാധാരണയായി അറിയാവുന്ന അബ്സോർബൻസ് സ്പെക്ട്രോസ്കോപ്പി ആ തന്മാത്രയ്ക്ക് പ്രത്യേകമായ ഒരു തരംഗദൈർഘ്യത്തിലെ ആഗിരണം അളക്കാൻ ഉപയോഗിക്കുന്നു ഫ്ലൂറസെൻസ് നമ്മൾ NADH ഫ്ലൂറസെൻസും മറ്റും നോക്കി അവ ഫ്ലൂറസെൻസ് സബ്സ്ട്രേറ്റുകൾ ഈ രീതി ഉപയോഗിക്കാൻ കഴിയുന്ന ഫ്ലൂറസെൻസ് ഉൽപ്പന്നങ്ങൾ ആകാം IR സ്പെക്ട്രോസ്കോപ്പി ഇൻഫ്രാ റെഡ് സ്പെക്ട്രോസ്കോപ്പി IRനടുത്തുള്ളതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്മൾ സംസാരിച്ചിരുന്നു NMR ന്യൂക്ലിയർ മാഗ്നെറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി EPR ഇലക്ട്രോൺ പാരാമാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി എന്നിവയെല്ലാം ഉപയോഗിക്കാം സബ്സ്ട്രേറ്റ്ന്റെയും ഉൽപ്പന്നങ്ങളുടെയും സാന്ദ്രത ഓഫ് ലൈൻ അളക്കുന്നതിന് സ്പെക്ട്രോസ്കോപ്പിക് രീതികൾ ഉപയോഗിക്കാം ക്രോമാറ്റോഗ്രാഫിchromatography ക്രോമാറ്റോഗ്രാഫിക് രീതികൾ ഉപയോഗിക്കാം ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി ഹൈ പ്രഷർ ലിക്വിഡ് ക്രോമാറ്റോഗ്രാഫി HPLC മുതലായവ ഉപയോഗിക്കാം ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന അത്തരം നിരവധി രീതികളുണ്ട് നമ്മൾ ഈ മൊഡ്യൂൾ 2ന്റെ അവസാനത്തിലെത്തിയെന്ന് ഞാൻ കരുതുന്നു 2 മൊഡ്യൂളിൽ നമ്മൾ എന്താണ് ചെയ്തതെന്ന് വളരെ ചുരുക്കത്തിൽ നോക്കാം ബയോമാസ് ബയോ പ്രൊഡക്റ്റുകൾ എന്നിവ ഒരു ബയോ പ്രോസസിന്റെ രണ്ട് പ്രധാന ഫലങ്ങളായി നമ്മൾ കണ്ടു അതായത് മൊഡ്യൂൾ 2ന്റെ പ്രധാന തീം ഈ ഉൽപ്പന്നങ്ങളുടെ വിശദാംശങ്ങളും കോശങ്ങളുടെ രൂപീകരണ നിരക്കിനുള്ള മോഡലുകളും ലളിതമായ മോഡലുകളും ചില വിശദമായ മോഡലുകളും നമ്മൾ പരിശോധിച്ചു എന്നിട്ട് എങ്ങനെ എന്താണ് സബ്സ്ട്രേറ്റ്കൾ അവ എങ്ങനെ പരിവർത്തനം ചെയ്യപ്പെടുന്നു കൂടാതെ സബ്സ്ട്രേറ്റ് വളർച്ചാ നിരക്കിനെ എങ്ങനെ ബാധിക്കുന്നുഅതിനുള്ള ചില മോഡലുകൾ നമ്മൾ അത് കണ്ടു വളർച്ചാ നിരക്കിന് സബ്സ്ട്രേറ്റ് പ്രഭാവം മോണോഡ് മോഡൽ നൽകുന്നുവെന്ന് നമ്മൾ കണ്ടു അതാണ് ഏറ്റവും ലളിതമായ പ്രാതിനിധ്യം മറ്റ് പ്രാതിനിധ്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട് ഉൽപ്പന്ന രൂപീകരണത്തിനായി നമുക്ക് ല്യൂഡെക്കിംഗ് പൈററ്റ് മോഡൽ ഉണ്ട് rpαrxβx വിളവ് ഗുണകങ്ങൾ പരിപാലനം എന്നിവ പോലുള്ള ചില ആശയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന എൻസൈമുകൾ ചില എൻസൈമുകൾ എന്നിവ നമ്മൾ പരിശോധിച്ചു ഒരു ബയോ റിയാക്ടറിലെ ബയോകോൺവേർഷനുകൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന എൻസൈമുകൾ എൻസൈമുകളുടെ ഗതികത അറിയേണ്ടതുണ്ടെന്ന് നമ്മൾ പറഞ്ഞു നമ്മൾ ഡെറിവേ ഷനിലൂടെ കടന്നുപോയ മൈക്കിളിസ് മെന്റൻ ഭൌതികശാസ്ത്രത്തെക്കുറിച്ച് വിശദമായി പരിശോധിച്ചു പിന്നെ നമ്മൾ ഇൻഹിബിഷൻ ചലനാത്മകത മത്സരാധിഷ്ഠിതം അലാത്തതും ആയ ഇൻഹിബിഷൻ ചലനാത്മകത എന്നിവയും പരിശോധിച്ചു അവ അടിസ്ഥാനമാക്കി നമ്മൾ കുറച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചു ഈ പ്രഭാഷണത്തിൽ ബയോമാസ് അല്ലെങ്കിൽ കോശങ്ങൾ സബ്സ്ട്രേറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ സാന്ദ്രത അളക്കുന്നതിനുള്ള രീതികൾ നമ്മൾ പരിശോധിച്ചു ഓൺ ലൈൻ ഓഫ് ലൈൻ രീതികൾ എന്നിങ്ങനെ രണ്ട് വ്യത്യസ്ത തരങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു ഓൺലൈനിൽ ഒരു മുൻഗണന എന്നാൽ ലഭ്യമായ രീതികളുടെ വിശ്വാസ്യത ഒരു പരിധി ഉണ്ട് കുറച്ച് രീതികൾ വളരെ വിശ്വസനീയമാണ് പിന്നെ നമ്മൾ തത്ത്വങ്ങൾ പരിശോധിച്ചു OD അളക്കൽ പായ്ക്ക്ഡ് സെൽ വോളിയം അളക്കൽ കോശങ്ങളുടെ ഉള്ളടക്കങ്ങൾ അളക്കുന്ന രീതി എന്നിങ്ങനെയുള്ള മൊത്തം കോശങ്ങളുടെ അളക്കുന്നതിനുള്ള രീതികൾ നമ്മൾ പരിശോധിച്ചു ഡൈ എക്സ്ക്ലൂഷൻ പ്ലേറ്റിംഗ് എന്നിവ പോലുള്ള കോശങ്ങളുടെ സാന്ദ്രതയ്ക്കുള്ള മാർഗ്ഗങ്ങൾ അവസാനമായി സബ്സ്ട്രേറ്റ് ഉൽപ്പന്ന സാന്ദ്രതയ്ക്കുമുള്ള ചില രീതികളും നമ്മൾ കണ്ടു മൊഡ്യൂൾ 2 അവസാനിപ്പിക്കുന്നു ഇത് പ്രഭാഷണം 9 നമ്മൾ 10 ലെക്ചർ സന്ദർശിക്കുമ്പോൾ മൊഡ്യൂൾ നമ്പർ 3 ഉപയോഗിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും